ഈ പാഠത്തിൽ നമ്മൾ ഡയോഡ് മാതൃകയെക്കുറിച്ച് ചർച്ച ചെയ്യും ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്ന മോഡലാണ് ലാർജ് സിഗ്നൽ മോഡൽ എന്നറിയപ്പെടുന്നത് ഡയോഡിലുടനീളമുള്ള മൊത്തം വോൾട്ടേജും ഡയോഡിലെ മൊത്തം വൈദ്യുതധാരയും ചില പ്രവർത്തന പോയിന്റിന് മേലുള്ള ഇൻക്രിമെന്റൽ മൂല്യങ്ങളല്ല മൊത്തം അളവുകളിലാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന വസ്തുതയെ ഇത് സൂചിപ്പിക്കുന്നു ഇതാണ് ഡയോഡ് ചിഹ്നം നമുക്ക് ആനോഡും കാഥോഡും ഉണ്ട് കൺവെൻഷൻ പ്രകാരം ആനോഡ് ടെർമിനലിൽ ഡയോഡിലുടനീളമുള്ള വോൾട്ടേജ് പോസിറ്റീവ് ആണെന്ന് ഞാൻ നിർവ്വചിക്കും തീർച്ചയായും VD യുടെ മൂല്യം എന്തും ആകാം നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ അനുസരിച്ച് നിലവിലെ ID ആനോഡിലേക്ക് ഒഴുകും ഇപ്പോൾ നമ്മൾ ഇതിനുള്ള ഒരു മാതൃക കണ്ടുകഴിഞ്ഞു ഡയോഡ് കറന്റ് IS ആണ് ഇവിടെ IS എന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റാണ് KTq ആയ Vt ആണ് തെർമൽ വോൾട്ടേജ് നിങ്ങൾ 300 കെൽവിനോ റൂം താപനിലയോ ആയി മൂല്യം മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 25mV ആണ് കൂടാതെ സ്വഭാവം ഗ്രാഫിക്കായി എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞങ്ങൾക്കറിയാം വിഡി പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കറന്റ് ഗണ്യമായി ഉണ്ടാകും VD നെഗറ്റീവായിരിക്കുമ്പോൾ IS എന്നതിലേക്ക് അത് പൂരിതമാകും തീർച്ചയായും ഡയോഡ് വോൾട്ടേജ് പൂജ്യമാകുമ്പോൾ കറന്റ് പൂജ്യമാണ് ഇപ്പോൾ ഡയോഡ് കറന്റിനും വളരെ ലളിതമായ സർക്യൂട്ടുകൾക്കും ഈ പദപ്രയോഗം ഉപയോഗിച്ച് പോലും മൂല്യനിർണ്ണയം വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ സമവാക്യങ്ങൾ സംഖ്യാപരമായി പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ഇതിനോട് ഞങ്ങൾക്ക് നിരവധി ഏകദേശങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നു ചിലപ്പോൾ വളരെ സൌകര്യപ്രദമായ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവഗണിക്കുക എന്നതാണ് തീർച്ചയായും ഈ പദം വളരെ വലുതായിരിക്കുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കൂ VD വലുതും പോസിറ്റീവും ആയിരിക്കുമ്പോൾ മാത്രമേ അത് വളരെ വലുതായിരിക്കുകയൊള്ളു വലുതും പോസിറ്റീവുമായ VD എന്ന് ഞാൻ പറയുമ്പോൾ തെർമൽ വോൾട്ടേജിനേക്കാൾ വളരെ കൂടുതലായിരിക്കണം ഈ സാഹചര്യത്തിൽ വ്യക്തമായും ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഇതിലും വളരെ കൂടുതലാണ് കുറച്ച് തെർമൽ വോൾട്ടേജുകളുടെ ഒരു VD ഇത് ശരിയാണെന്ന് മാറുന്നു നമുക്ക് വേണ്ടത് 100mV ആണ് ഈ സാഹചര്യത്തിൽ ID IS eVdVt ആയി കണക്കാക്കാം തീർച്ചയായും വിഡി തെർമൽ വോൾട്ടേജിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ മാത്രമേ ഇത് നിലനിർത്തൂ എന്ന് ഓർമ്മിക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രദേശത്ത് എന്താണ് സംഭവിക്കുന്നത് അവിടെ കറന്റ് ഗണ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അതേ മൂല്യം ലഭിക്കും കൃത്യമായ പദപ്രയോഗവും ഇതും തമ്മിലുള്ള ഒരു നിർണായക വ്യത്യാസം VD പൂജ്യത്തിന് തുല്യമാകുമ്പോൾ ഒരു പുതിയ പദപ്രയോഗം പൂജ്യത്തിലേക്ക് പോകില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ ഈ സ്വഭാവം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ ഒരു ഭാഗം ഉണ്ടാകും അതായത് ഉപകരണങ്ങൾ നിഷ്ക്രിയമല്ല എന്നാണ് തീർച്ചയായും യാഥാർത്ഥ്യമെന്തെന്നാൽ ഒറിജിന് സമീപം VD പൂജ്യത്തിന് തുല്യമായതിന് സമീപം ഈ പദപ്രയോഗം പോലും ഉപയോഗിക്കരുത് അത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ് റിവേഴ്സ് ബയസ് കറന്റ് വളരെ ചെറുതായതിനാൽ IS ഈ മൂല്യം വളരെ ചെറുതാണ് എന്നതാണ് മറ്റൊരു ഏകദേശ കണക്ക് കറന്റുകളെ അപേക്ഷിച്ച് ചെറുതാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഫോർവേഡ് ബയസിൽ ആണ് നിങ്ങൾ സാധാരണയായി കാണുന്നത് അപ്പോൾ നിങ്ങൾ ഡയോഡിലൂടെ കറന്റ് ഒഴുകുന്നില്ലെന്ന് കരുതുക അതായത് റിവേഴ്സ് ബയസിൽ ഡയോഡിൽ കറന്റ് ഇല്ല പതിവായി ഉപയോഗിക്കുന്ന ഏകദേശ കണക്കുകളിൽ ഒന്നാണിത് തീർച്ചയായും ഞങ്ങൾ ഇപ്പോഴും രേഖീയമല്ലാത്ത സമവാക്യം ഉപേക്ഷിച്ചു ഇത് ചില സർക്യൂട്ടുകൾക്ക് ഉപയോഗപ്രദമാണ് പക്ഷേ ഇപ്പോഴും ലളിതമായ അനിയന്ത്രിതമായ സർക്യൂട്ടുകൾക്ക് പോലും നിങ്ങൾ രേഖീയമല്ലാത്ത സമവാക്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് കൂടാതെ കൈ കണക്കുകൂട്ടലുകൾക്ക് അത് ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ കാണുന്ന അടുത്ത ഏകദേശ കണക്ക് നിങ്ങൾ കർവിന്റെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ കർവ് വളരെ കുത്തനെയുള്ളതാണ് ഞാൻ VD വേഴ്സസ് ID പ്ലോട്ട് ചെയ്യുന്നു കർവ് വളരെ കുത്തനെയുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് കർവിന്റെ ഈ ഭാഗത്ത് ഡയോഡ് വോൾട്ടേജ് വളരെയധികം മാറില്ല അത് തീർച്ചയായും മാറുന്നു വാസ്തവത്തിൽ ഡയോഡ് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്താൻ ഞാൻ ഈ ഏകദേശ പദപ്രയോഗം ഉപയോഗിക്കും അതിനാൽ VD എന്നത് തെർമൽ വോൾട്ടാജിന്റെയും ഡയോഡ് കറന്റിന്റെ നാച്ചുറൽ ലോഗരിതത്തെ സാറ്റുറേഷൻ കറന്റു വെച്ച ഹരിക്കുന്നതാണ് ഡയോഡ് വൈദ്യുതധാരയുടെ സ്വാഭാവിക ലോഗരിതത്തിന്റെ താപ വോൾട്ടേജ് തവണ VD ആയിരിക്കും അതിനാൽ ഇപ്പോൾ ID ഇരട്ടിയായി ID 2 ID യായി മാറുന്നു ഇത് Vt ln 2IdIs ആയി മാറുന്നു ഇത് അടിസ്ഥാനപരമായി Vt ln IDIs Vt ln 2 ന്റെ പഴയ മൂല്യമാണ് നിങ്ങൾ ഇത് കണക്കാക്കിയാൽ അത് പുറത്തുവരും ഏകദേശം 17 5mV ആയിരിക്കും അതിനാൽ കറന്റ് ഇരട്ടിയാക്കിയാലും ഡയോഡ് വോൾട്ടേജ് 20mV ൽ താഴെയുള്ള എന്തെങ്കിലും മാറ്റുന്നു അതിനാൽ നിരവധി വൈദ്യുതധാരകൾക്ക് ഡയോഡ് വോൾട്ടേജ് സ്ഥിരമാണെന്ന് നമുക്ക് ന്യായമായ ഒരു അപ്രോക്സിമേഷൻ നടത്താം തീർച്ചയായും നിങ്ങൾ ഒറിജിനോട് അടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ മോശമായ എററുകൾ നൽകുന്നു പക്ഷേ അത് ശരിയാണ് ഡയോഡ് ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ മുന്നോട്ടുള്ള ദിശയിൽ കുറച്ച് കറന്റ് ഒഴുകുമ്പോൾ ഡയോഡ് വോൾട്ടേജ് സ്ഥിരമാണെന്ന് പറയുന്നതാണ് ഏകദേശത്തിന്റെ അടുത്ത ലെവൽ കൂടാതെ റിവേഴ്സ് ബയസ് മേഖലയിൽ കറന്റ് വളരെ ചെറുതാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പൂജ്യത്തിലേക്ക് ഏകദേശം കണക്കാക്കിയിട്ടുണ്ട് അതാണ് ഈ തരത്തിലുള്ള സ്വഭാവസവിശേഷതകൾ ഞങ്ങൾ അനുമാനിക്കുന്നത് അത് ഇവിടെ വരെ തുടരാം അതിനാൽ ഈ സമയം വരെ പൂജ്യം കറന്റ് ഉണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു ഈ സമയത്ത് വോൾട്ടേജ് സ്ഥിരമായിരിക്കും അതിന് ഏത് കറന്റും വഹിക്കാൻ കഴിയും അതിനാൽ ഏകദേശത്തിന്റെ അടുത്ത ലെവൽ ഇപ്രകാരമാണ് ഫോർവേഡ് ബയസ് അതായത് ഗണ്യമായ ID ഒഴുകുന്നു തീർച്ചയായും മുന്നോട്ടുള്ള ദിശയിൽ വിപരീത ദിശയിൽ ഡയോഡിൽ ഗണ്യമായ വൈദ്യുതധാര ഒഴുകാൻ കഴിയില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് VD എന്നത് ചില സ്ഥിരതയുള്ളതാണ് ഇത് VD ON എന്ന് സൂചിപ്പിക്കുന്നു ഈ സ്ഥിരാങ്കത്തിന്റെ മൂല്യം എന്താണ് അടിസ്ഥാനപരമായി ഈ സ്ഥിരമായ മൂല്യം നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില തരം ഡയോഡുകൾ ഉണ്ട് കൂടാതെ സാധാരണയായി പ്രവർത്തിക്കുന്ന ചില വൈദ്യുതധാരകൾ നിങ്ങൾക്കുണ്ട് അതിനായി നിങ്ങൾ ഒരു ന്യായമായ മൂല്യത്തിനായി തിരയുന്നു ഇതിനുള്ള ന്യായമായ മൂല്യം 0 7 V ആണെന്ന് മാറുന്നു ഇപ്പോൾ ഇത് അങ്ങനെയാകണമെന്നില്ല നിങ്ങൾ വളരെ ചെറിയ വൈദ്യുതധാരകളോടെ ഡയോഡുകൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ ചെറുതായിരിക്കാം കൂടാതെ വളരെ വലിയ വൈദ്യുതധാരകൾ വഹിക്കുന്ന ഡയോഡുകളിലും ഇത് 1 V വരെ ഇതിലും കൂടുതലായിരിക്കാം എന്നാൽ ഇത് 0 7 V ആണെന്ന് ഞങ്ങൾ അനുമാനിക്കും എന്നാൽ പ്രധാന കാര്യം കറന്റിന്റെ മൂല്യം പരിഗണിക്കാതെ തന്നെ സ്ഥിരമായി കണക്കാക്കുന്നു എന്നതാണ് തുടർന്ന് ഞാൻ അതിനെ റിവേഴ്സ് ബയസ് എന്ന് വിളിക്കും അടിസ്ഥാനപരമായി ഡയോഡ് ഓഫായിരിക്കുമ്പോൾ ഞാൻ ഇതിനെ ഡയോഡ് ഓഫ് ആണെന്ന് പരാമർശിക്കുന്നു മാത്രമല്ല ഞാൻ ഇതിനെ റിവേഴ്സ് ബയസ് എന്ന് വിളിക്കേണ്ടതില്ല കാരണം VD നെഗറ്റീവ് ആയിരിക്കണമെന്നില്ല അതിൽ VD 0 7 V ൽ താഴെയും ഉൾപ്പെടുന്നു 7 V നേക്കാൾ കുറവാണെങ്കിൽ കറന്റ് പൂജ്യമായിരിക്കും എന്നാണ് ഇതിനർത്ഥം VD ON നേക്കാൾ കുറവാണെങ്കിൽ കറന്റ് പൂജ്യമായിരിക്കും ഡയോഡ് ഓണായിരിക്കുമ്പോഴാണ് ഫോർവേഡ് ബയസ് എന്നാൽ കറന്റ് ഇല്ലാത്ത ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വോൾട്ടേജ് സ്ഥിരമായിരിക്കുന്നതും ഏത് വൈദ്യുതധാരയെയും പിന്തുണയ്ക്കാൻ കഴിയുന്നതുമായ ഓൺ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു തരം സ്വിച്ച് പോലെയാണ് ഇത് കാണപ്പെടുന്നത് ഇപ്പോൾ ഇത് ശരിയാണ് വാസ്തവത്തിൽ ഇതാണ് ഞങ്ങളുടെ വലിയ സിഗ്നൽ കണക്കുകൂട്ടലുകൾക്കായി ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് ഇനിയും കണക്കാക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും വോൾട്ടേജുകൾ 0 7 V നേക്കാൾ വളരെ വലുതായ സർക്യൂട്ടുകൾ നമുക്കുണ്ടെന്ന് പറയാം VD നെഗറ്റീവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സീറോ കറന്റ് ഉള്ളതായി കണക്കാക്കാം സീറോ വോൾട്ടേജ് ഉള്ളതിനാൽ അതിലൂടെ ഏതെങ്കിലും കറന്റ് ഒഴുകുമ്പോൾ അത് പൂജ്യം V ആയി സജ്ജീകരിച്ച് VD ക്ക് ഒരു ഏകദേശ അപ്രോക്സിമേഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നു അതായത് പോസിറ്റീവ് കറന്റ് ഒഴുകുമ്പോൾ ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു ഒരു റിവേഴ്സ് വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഡയോഡ് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ ഐ വേഴ്സസ് വി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇനിപ്പറയുന്നതാണ് ഇത് ഇതാണ് ഒഴുകുന്ന കറന്റ് പരിഗണിക്കാതെ തന്നെ ഇതിന് പൂജ്യം വോൾട്ടേജ് ഉണ്ടായിരിക്കും കൂടാതെ ഒരു ഓപ്പൺ സർക്യൂട്ടിന്റെ I V സ്വഭാവവും അങ്ങനെയാണ് അതിൽ ഉടനീളമുള്ള വോൾട്ടേജ് പരിഗണിക്കാതെ തന്നെ അതിന് സീറോ കറന്റ് ഉണ്ടായിരിക്കും ഇവ രണ്ടും കൂടിച്ചേർന്നതാണ് ഇപ്പോൾ ഡയോഡ് റിവേഴ്സ് ബയസ് മേഖലയിൽ ഈ ഭാഗത്ത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് ഫോർവേഡ് ബയസ് മേഖലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് അതിനാൽ ഇത് ഡയോഡ് സ്വഭാവസവിശേഷതകളുടെ മറ്റൊരു ഏകദേശമാണ് അതിനാൽ ചുരുക്കത്തിൽ നമുക്ക് ഡയോഡിന്റെ കൃത്യമായ സ്വഭാവസവിശേഷതകൾ ഉണ്ട് ഇത് കൃത്യമായി ഞാൻ ഉദ്ധരണികൾ ഇടും കാരണം ഇത് ഇപ്പോഴും ഡയോഡ് സ്വഭാവത്തിന്റെ അനുയോജ്യമായ പതിപ്പാണ് ഒരു പ്രായോഗിക ഡയോഡിൽ നിങ്ങൾക്ക് മറ്റ് അനുയോജ്യമല്ലാത്ത സവിശേഷതകൾ ഉണ്ടാകും എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ സവിശേഷതകളാണ് ഇത് VD യുടെ എല്ലാ മൂല്യങ്ങൾക്കും സാധുതയുള്ളതാണ് തുടർന്ന് നമുക്ക് ഏകദേശത്തിന്റെ ആദ്യ ലെവൽ ഉണ്ട് അവിടെ VD Vt നേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ ഈ മൈനസ് വൺ ടേം ഇല്ലാതെ ID വെറും എക്സ്പോണൻഷ്യൽ മാത്രമാണെന്ന് ഞങ്ങൾ പറയുന്നു VD പൂജ്യത്തേക്കാൾ കുറവായിരിക്കുമ്പോൾ അത് പൂജ്യമാണ് ഡയോഡിലൂടെ കറന്റ് ഒഴുകുന്നുണ്ടെങ്കിൽ ഡയോഡിലൂടെ ഫോർവേഡ് കറന്റ് ഒഴുകുന്നുവെങ്കിൽ ഡയോഡ് വോൾട്ടേജ് ചില സ്ഥിരമായ VD ഓൺ ആണ് അത് നമ്മൾ 0 7 V ആയി എടുക്കും വോൾട്ടേജ് VD ഓണിനേക്കാൾ കുറവാണെങ്കിൽ ID കൃത്യമായി പൂജ്യത്തിന് തുല്യമായിരിക്കും ഈ മോഡലിൽ ഡയോഡ് വോൾട്ടേജ് VD ON നേക്കാൾ കൂടുതലാകരുത് ഇതിന്റെ ക്രൂഡർ വേർഷൻ പറയുന്നത് ID പൂജ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ VD പൂജ്യമാണ് VD പൂജ്യത്തേക്കാൾ കുറവാണെങ്കിൽ ID പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ ഇതാണ് ഓൺ ഡയോഡ് അതാണ് ഓഫ് ഡയോഡ് ഈ കോഴ്സിലും സാധാരണയായി കൈ കണക്കുകൂട്ടലുകൾക്കായുള്ള പല കോഴ്സുകളിലും നിങ്ങൾ ഇത് ന്യായമായ ഏകദേശമായി ഉപയോഗിക്കും